എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I എന്ന കോഴ്സിന്റെ ലെക്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പതിനാലാമത്തെ ലക്ചർ ആണ് വീണ്ടും നമ്മൾ രണ്ടോ അതിലധികമോ വേരിയബിളുകളുള്ള ഫങ്ക്ഷനുകളുടെ ഡിഫറെൻഷ്യബിലിറ്റിയാണ് തുടരാൻ പോകുന്നത് ഇന്ന് ഇതിൽ ധാരാളം സോൾവ് ചെയ്ത പ്രശ്നങ്ങളും ഉണ്ടാവും മുമ്പത്തെ ലക്ച്ചറിൽ നമ്മൾ കണ്ട ഡിഫറെൻഷ്യബിലിറ്റിയുടെ തുല്ല്യ നിർവചനമായി Δz എന്നതിനെ aΔxbΔyϵ1Δxϵ2Δy എന്ന പ്രയോഗത്തിന് പകരം നമുക്ക് ഈ ലിമിറ്റ് കണ്ടുപിടിക്കാം എന്നിട്ട് ഈ ലിമിറ്റ് പൂജ്യത്തിനു തുല്യമാണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണ് അതുപോലെ ഈ ലിമിറ്റ് കൊണ്ടുള്ള നിർവചനം വ്യത്യസ്ത ഫങ്ക്ഷനുകളുടെ ഡിഫറെൻഷ്യബിലിറ്റിയെ തെളിയിക്കാൻ ഉപയോഗപ്രദവുമാണെന്ന് നമ്മൾ കണ്ടു അതുപോലെ ആവശ്യമായ വ്യവസ്ഥകളും വളരെ പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു കാരണം നമ്മൾ ആദ്യം ഈ ആവശ്യ വ്യവസ്ഥകൾ പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല അല്ലെങ്കിൽ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗിക ഡെറിവേറ്റീവ് നിലനിൽക്കുന്നില്ല എന്നിങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻഡിഫറെൻഷ്യബിളല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തെന്നാൽ ഇവയൊക്കെയാണ് ഡിഫറെൻഷ്യബിലിറ്റിയുടെ അവശ്യ വ്യവസ്ഥകൾ അതുപോലെ നമ്മൾ ആവശ്യമായ വ്യവസ്ഥകളുടെ പ്രാധാന്യവും കണ്ടു എന്തെന്നാൽ ഭാഗിക ഡെറിവേറ്റിവിന്റെ കണ്ടിന്യൂയിറ്റി നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലെ ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിർവ്വചനം ഉപയോഗിക്കാതെ തന്നെ ആ ഫംഗ്ഷൻഡിഫറെൻഷ്യബിൾ ആണെന്ന നിഗമനത്തിൽ എത്താം ഇനി നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം fx y എന്ന ഫംഗ്ഷൻറെ ഒറിജിനിലെ ഡിഫറെൻഷ്യബിലിറ്റി x2y2 എന്നതിന് തുല്യമാണെന്നും x y പൂജ്യം ആകുമ്പോൾ ഇത് പൂജ്യം ആവും എന്നും കാണാം അതായത് ഒറിജിനിൽ ഇതിന്റെ മൂല്യം പൂജ്യമാണ് ആദ്യം നമ്മൾ ആവശ്യമുള്ള വ്യവസ്ഥ പരിശോധിക്കും ഇത് നമ്മൾ എല്ലാ പ്രശ്നങ്ങളിലും പ്രാഥമികമായി ചെയ്യേണ്ടതാണ് കാരണം ഇവയെല്ലാം ഡിഫറെൻഷ്യബിലിറ്റിയിലേക്ക് പോകുന്നതിന് മുൻപ് ഫംഗ്ഷൻനിറവേറ്റേണ്ട അവശ്യവസ്തുക്കൾ ആണ് അപ്പോൾ ഇവിടെ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കും fx y എന്നത് x y പൂജ്യത്തിലേക്ക് പോവുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ അധികം ഒന്നും ചെയ്യാതെ തന്നെ ഒന്നുകിൽ പോളാർ കോർഡിനേറ്റിലേക്ക് വീണ്ടും മാറുകയും ചെയ്താൽ ഇതിലെ r2 പദം ഡിനോമിനേറ്റർ ആയി വരികയും ന്യൂമറേറ്ററിൽ നാല് പദങ്ങൾ വരികയും ചെയ്യും fxyx2y2 xy≠000 xy00┤ lim┬xy→00⁡fxy0fx 000fy 000 അപ്പോൾ ന്യൂമറേറ്ററിൽ വീണ്ടും നമുക്ക് ഈ r2 ലഭിക്കും അതിനോട് കൂടെ cos ഉം sin ഉം ഉണ്ടാവും അത് ലിമിറ്റിനെ പൂജ്യമാക്കും അപ്പോൾ x y പൂജ്യത്തിലേക്ക് പോവുമ്പോൾ ഈ f x y എന്ന ഫംഗ്ഷൻറെ ലിമിറ്റും പൂജ്യത്തിലേക്ക് പോകും അതുപോലെ 00 എന്നതിലെ ഭാഗിക ഡെറിവേറ്റീവ് fx ഉം പൂജ്യമാണ് limΔx→0 f 0Δxy എന്നത് പോലെയുള്ള മറ്റുള്ളവ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ലാതെയും തുടരും അപ്പോൾ f00 എന്നതും അതിനുശേഷം Δx കൊണ്ട് ഹരിക്കുകയും ചെയ്യുക കാരണം ഇത് ഇവിടെ പൂജ്യമാണ് ഇനി നമുക്കിവിടെ ഗുണനഫലം ആണ് ഉള്ളത് അപ്പോൾ ഇത് പൂജ്യം ആകും ഇവിടെയും ഇത് പൂജ്യം ആകും അപ്പൊൾ 0 0 എന്നാവുമ്പോൾ നമുക്ക് ഈ ഭാഗിക ഡെറിവേറ്റീവ് പൂജ്യമായി കിട്ടും ഇപ്പോൾ ഇത് പൂജ്യമാണ് അതുപോലെ fy യും പൂജ്യം ആവും അപ്പോൾ നമുക്ക് ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും 00 എന്ന പോയിന്റിൽ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റിയും ലഭിച്ചു ഇനി ആവശ്യമുള്ള വ്യവസ്ഥകളെ നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഭാഗിക ഡെറിവേറ്റീവിന്റെ 00 ലെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കണം അപ്പോൾ ഈ fx എന്ന x ന്റെ ഭാഗിക ഡെറിവേറ്റീവ് എല്ലായിടത്തും കിട്ടണം അല്ലെങ്കിൽ 00 എന്ന പോയിന്റിന്റെ അയല്പക്കത്തെങ്കിലും കിട്ടണം അപ്പോൾ xy≠00 യിൽ ഭാഗിക ഡെറിവേറ്റീവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഫങ്ക്ഷനെ x ന് അനുസൃതമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അപ്പോൾ ഈ y യെ കോൺസ്റ്റൻഡായി എടുത്ത് ഇവ ഭാഗിക ഡെറിവേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ x ന് അനുസൃതമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും ഇത് x2y22 എന്നതിനു തുല്യമാകും അപ്പോൾ x ന് അനുസൃതമായിട്ടുള്ള ഇതിന്റെ ഡെറിവേറ്റീവ് എന്നത് ആണ് പിന്നീട് ഇതിലേക്ക് x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് 2x ആണ് അപ്പോൾ ഇവിടെ നമുക്ക് x2y3 ഇവിടെയും രണ്ടു തവണ x2y3 ലഭിക്കും മൈനസ് x2y3 പിന്നീട് ഇവിടെ y5 ഉം കിട്ടും ഈ y5 ആണ് ഇവിടെ പിന്നെ ഇവിടെ ഉള്ളത് x2y22 ആണ് ഈ 00 അല്ലാത്ത പോയന്റിൽ xy≠00 എന്നതിൽ x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവോ y ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവോ കിട്ടാൻ മറ്റു വേരിയബിളുകൾ കോൺസ്റ്റന്റാക്കി വെച്ച് ആ വേരിയബിളിന് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവ് നേരിട്ട് എടുത്താൽ മതിയാകും fx xy x2 y3y5 x2y22 xy≠000 xy00┤ തൊട്ടു മുൻപ് നമുക്കിവിടെ ലഭിച്ച fx000 എന്ന ഡിഫറെൻഷ്യബിലിറ്റിയുടെ അടിസ്ഥാന നിർവചനം ഉപയോഗിച്ച് കിട്ടിയതിനെ ഈ 00 ലെ മൂല്യം കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അത് ഇവിടെ പൂജ്യമാണ് അപ്പോൾ നമ്മൾ 00 ലും അതിന്റെ ചുറ്റുവട്ടത്തും fx xy എന്നതിന്റെ മൂല്യം വിലയിരുത്തി ഇനി കണ്ടിന്യൂയിറ്റിക്ക് വേണ്ടി ഈ ഫംഗ്ഷന്റെ x y എന്ന പോയിന്റ് 00 ലേക്ക് പോകുമ്പോൾ എടുക്കുന്ന ലിമിറ്റ് പൂജ്യത്തിനു തുല്യം ആണോ അല്ലയോ എന്ന് നോക്കുക ആവശ്യമായ വ്യവസ്ഥയെ മാനിച്ച് ഈ ഫംഗ്ഷൻറെ ലിമിറ്റ് പൂജ്യത്തിനു തുല്യമാണെങ്കിൽ ഫംഗ്ഷൻഡിഫറെൻഷ്യബിൾ ആണ് അല്ലെങ്കിൽ ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാൻ നമ്മൾ ഇനിയും മുന്നോട്ട് പോകണം lim┬├ xy→0 0 ⁡〖fxx y0fx 0 0〗 ഇവിടെ നമ്മൾ xy→0 0 എന്ന ലിമിറ്റ് fx x y ക്ക് എടുക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പകരം ആക്കുകയാണെങ്കിൽ അത് പോലെ പോളാർ കോർഡിനേറ്റിലേക്ക് ഇതിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് r2 കിട്ടും അപ്പോൾ ഇത് r4 പക്ഷേ അവിടെ നമുക്ക് r5 ആണ് ഉണ്ടാവുക അങ്ങനെയങ്ങനെ നമുക്ക് നുമറേറ്ററിൽ ഒരു r ലഭിക്കും xy→0 0 ആവുമ്പോൾ ഇതിന്റെ ആ r പൂജ്യത്തിലേക്ക് പോവുകയും അതിന്റെ മൂല്യം പൂജ്യത്തിന് തുല്യമാവുകയും ചെയ്യും അതുകൊണ്ടുതന്നെ fx എന്നത് കണ്ടിന്യൂസ് ആണ് കാരണം ഇത് പൂജ്യത്തിന് തുല്യമാണ് മാത്രമല്ല 00 ൽ fx ന്റെ മൂല്യവും ഇതാണ് ഇപ്പോൾ നമുക്കിവിടെ ഭാഗിക ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റി കിട്ടി അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റി തെളിയിക്കാം കാരണം ഭാഗിക ഡെറിവേറ്റീവ് നിലനിൽക്കുമെങ്കിൽ ഫംഗ്ഷൻകണ്ടിന്യൂസ് ആയിരിക്കും അപ്പോൾ അവശ്യമായ വ്യവസ്ഥ തെളിയിക്കപ്പെട്ടു ഇനി പര്യാപ്തമായ വ്യവസ്ഥക്ക് വേണ്ടി നമുക്ക് ഭാഗിക ഡെറിവേറ്റീവുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ fx എന്നത് കണ്ടിന്യൂസ് ആണെന്ന് തെളിയിച്ചു ഇതു മതിയാവും ഫംഗ്ഷൻ f00 എന്ന പോയന്റിൽ ഡിഫറെൻഷ്യബിൾ ആണെന്ന് കാണിക്കാൻ അടുത്ത പ്രശ്നത്തിൽ വീണ്ടും നമ്മൾ ഒറിജിനിലെ ഈ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിയാണ് ചർച്ച ചെയ്യുന്നത് x≠0 ആവുമ്പോൾ ഫംഗ്ഷൻ y3 sin⁡1x2 എന്നും x0 വിൽ അത് പൂജ്യവും ആവുന്നു അപ്പോൾ നമ്മൾ f ന്റെ കണ്ടിന്യൂയിറ്റിയും ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും പരിശോധിക്കാം വീണ്ടും ഇത് കാണാൻ വളരെ എളുപ്പമാണ് കണ്ടിന്യൂയിറ്റിക്ക് വേണ്ടി നമുക്ക് ഈ ഫംഗ്ഷൻx y യുടെ xy→0 0 ലെ ലിമിറ്റ് എടുക്കണം വീണ്ടും അത് കാണാൻ എളുപ്പമാണ് ഈ ഫംഗ്ഷൻx y യിൽ കണ്ടിന്യൂയിറ്റിക്ക് വേണ്ടി നമുക്ക് xy→0 0 എന്ന ലിമിറ്റ് എടുക്കാം ഇത് തുച്ഛമായിരിക്കും എന്തെന്നാൽ ഇതൊരു അതിരുകളുള്ള ഫംഗ്ഷൻആയതുകൊണ്ടും x y എന്നത് പൂജ്യത്തിലേക്ക് പോകുന്നത് കൊണ്ടും അപ്പോൾ ഈ y പൂജ്യത്തിലേക്ക് പോവും അപ്പോൾ ഫംഗ്ഷൻറെ 00 എന്ന പോയന്റിലെ മൂല്യം പൂജ്യം ആയിരിക്കുകയും ചെയ്യും fxyy3 sin⁡1x2 x≠00 x0┤ ഈ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റിയും ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും കാണാൻ വേണ്ടി x ന് അനുസൃതമായിട്ടെടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവ് ഈ ലിമിറ്റ് 0Δx എന്നത് പൂജ്യം ആണെന്നും അതിൽ നിന്ന് f00 കുറച്ച് അതിനെ Δx കൊണ്ട് ഹരിക്കണം അപ്പോൾ ഇവിടെ ഈ y പൂജ്യം ആകും ഇത് പൂജ്യം ആകും ഇത് വീണ്ടും പൂജ്യം ആകും അപ്പോൾ നമുക്ക് 00 എന്നതും 0 ആയിട്ട് കിട്ടും അതായത് x ന് അനുസൃതമായിട്ട് നമുക്ക് ഭാഗിക ഡെറിവേറ്റീവ് കിട്ടി ഇതുപോലെ നമുക്ക് y ക്ക് അനുസൃതമായിട്ടെടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും കാണണം അതിനുവേണ്ടി Δy→0 യും f0Δy f00 എന്നും താഴെ ഇവിടെ Δy എന്നും കൊടുക്കണം x പൂജ്യം ആയതുകൊണ്ട് ഫംഗ്ഷൻ വീണ്ടും പൂജ്യം ആകും ഇവിടെയും ഈ ഫംഗ്ഷൻറെ മൂല്യം പൂജ്യം ആകും അപ്പോൾ വീണ്ടും നമുക്ക് 0 കിട്ടും അപ്പോൾ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റിയും ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും നമ്മൾ വളരെ എളുപ്പത്തിൽ കണ്ടു fxxy x3 cos⁡1x2 x≠00 x0┤ ഇനി അടുത്തതായി നമ്മൾ x ന് അനുസൃതമായിട്ടെടുക്കുന്ന ഭാഗിക ഡെറിവേറ്റീവ് ആയ fx ന്റെ കണ്ടിന്യൂയിറ്റി കിട്ടാൻ വേണ്ടി നോക്കാം അതിനുവേണ്ടി x പൂജ്യം അല്ലാത്തപ്പോഴത്തെ ഭാഗിക ഡെറിവേറ്റീവ് നമുക്ക് കണക്കു കൂട്ടണം ഇത് നമുക്ക് ലഭിക്കുകയും വേണം മുൻപ് നമ്മൾ കണ്ടത് പോലെ ഇതിന്റെ മൂല്യം പൂജ്യമാണ് അതുപോലെ x0 വും ആണ് അപ്പോൾ 00 എന്ന പോയന്റിലെങ്കിലും ഇത് പൂജ്യം ആണെന്ന് നമ്മൾ കണ്ടു ഇനി x≠0 എന്ന അവസ്ഥയിൽ നമുക്ക് x ന് അനുസൃതമായിട്ട് നേരിട്ട് ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ y3 കോൺസ്റ്റൻസ് ആയിട്ട് എടുക്കും Sin ന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് cos⁡1x2 അതുപോലെ 1x2 ന്റെ ഡെറിവറ്റീവ് 2x3 ആവും അപ്പോൾ ഇതാണ് x≠0 ആവുമ്പോഴത്തെ ഡെറിവേറ്റീവ് ഡെറിവേറ്റിവിന്റെ അടിസ്ഥാന നിർവചനം പ്രകാരം ഈ ഡെറിവേറ്റീവ് പൂജ്യത്തിന് തുല്യമാവും എന്നും കിട്ടി ഈ ഒരവസ്ഥയിൽ ഇവിടെ ലിമിറ്റ് എടുക്കുവാണേൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണിക്കാം ലിമിറ്റ് എടുക്കുന്നത് ഒന്നുകിൽ x y അല്ലെങ്കിൽ x→0 എന്നതാണ് അപ്പോൾ നമ്മൾ ഒറിജിനിലേക്ക് ആണ് അടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലിമിറ്റിന് എന്ത് സംഭവിക്കും അപ്പോൾ x y→0 എന്നതിൽ നമ്മൾ fx ന്റെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഇതേ മാർഗത്തിൽ yx എന്നത് കാണാൻ എളുപ്പമാണ് അപ്പോൾ ഈ yx എന്ന മാർഗ്ഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എന്താകും ഈ ലിമിറ്റ് 2 ഉം ഇത് cos⁡1x2 ആവും പിന്നെ ഈ ലിമിറ്റ് പൂജ്യത്തിലേക്ക് പോവുകയും ചെയ്യും ഈ കേസിൽ ഈ ലിമിറ്റ് നിലനിൽക്കുന്നില്ല എന്ന് ഒരാൾക്ക് വ്യക്തമായി കാണാൻ കഴിയും കാരണം cos⁡1x2 എന്ന പദത്തിന് ഒരു നിശ്ചിത മൂല്യമില്ല അപ്പോൾ ഈ പ്രത്യേക പാതയിൽ തന്നെ ഇവിടെ ലിമിറ്റ് നിലനിൽക്കുന്നില്ല അപ്പോൾ lim┬xy→00 fxxy എന്നത് നിലനിൽക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ fx ഈ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെന്നും നമുക്ക് പറയാം അപ്പോൾ ഇത് ഈ സമയത്തെ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിയെ തെളിയിക്കാൻ സഹായിക്കുന്നില്ല Along the path yx lim┬├ xy→0 0 ⁡〖fx x y〗 2 〖lim〗┬x→0⁡cos⁡1x2 ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റേ y ക്ക് അനുസൃതമായിട്ടെടുക്കുന്ന fy എന്ന പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കാം അപ്പോൾ y ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് അത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ ഡിഫറെൻഷ്യബിലിറ്റിയുടെ പര്യാപ്തമായ വ്യവസ്ഥകളെ വച്ച് നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് വീണ്ടും അഭിപ്രായപ്പെടാം കാരണമെന്തെന്നാൽ നമുക്ക് ഒരു ഭാഗിക ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റി ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്ന് തെളിയിക്കാൻ ആവശ്യമാണ് അപ്പോൾ ഇവിടെ fx കണ്ടിന്യൂസ് അല്ല അപ്പോൾ നമ്മൾ മറ്റേതിന്റെ കണ്ടിന്യൂയിറ്റി പരിശോധിക്കും ഇവിടെ വീണ്ടും fx കോൺസ്റ്റൻസ് ആയി കണ്ട് നമുക്ക് fy കണക്ക് കൂട്ടാം ഇത് x≠0 ആവുമ്പോൾ 3y2 cos⁡1x2 ഉം x0 ആവുമ്പോൾ പൂജ്യവും ആകും അപ്പോൾ നമ്മൾ വീണ്ടും ഈ fyxy എന്നതിന് xy→0 0 എന്ന ലിമിറ്റ് എടുക്കും ഇവിടെ അവസ്ഥ വ്യത്യസ്തമാണ് ഇവിടെ xy→00 ആവുമ്പോൾ ഈ പദം പൂജ്യത്തിലേക്ക് പോകും അപ്പോൾ അവിടെ നിശ്ചിതമായിട്ടുള്ള എന്തെങ്കിലുമൊന്നാണ് ഇരിക്കുന്നത് ഈ അവസ്ഥയിൽ ലിമിറ്റ് പൂജ്യമായിട്ട് കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല അപ്പോൾ 3y2 cos⁡1x2 എന്ന ഈ ഫംഗ്ഷന്റെ x y→00 എന്ന ലിമിറ്റ് ഏത് ദിശയിൽ നിന്ന് എടുക്കുമ്പോഴും ഇത് പൂജ്യമായി തന്നെ വരും fyxy3y2 cos⁡1x2 x≠00 x0┤ lim┬├ xy→0 0 ⁡fy x y0 ഇതാണ് ഒറിജിനിലെ ഇതിന്റെ മൂല്യം അതുപോലെ fy യുടെയും അപ്പോൾ ഈ fy കണ്ടിന്യൂസ് ആണ് ഇവിടെ ഇത് fx കണ്ടിന്യൂസ് അല്ലാതിരുന്ന എന്നാൽ ഇപ്പോൾ കണ്ടിന്യൂസായ ഒരു പ്രത്യേക ഉദാഹരണമാണ് ഈയൊരു അവസ്ഥയിൽ fx ഉം fy ഉം വ്യക്തമാക്കിയാൽ രണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ fy യുടെ കണ്ടിന്യൂയിറ്റിയുണ്ട് അതായത് ഏതെങ്കിലും ഒന്നിന്റെ ഏക വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ അടിസ്ഥാനപരമായി ഡിഫറെൻഷ്യബിൾ ആണെന്നോ അല്ലെങ്കിൽ ഡിഫറെൻഷ്യബിലിറ്റിയുടെ അടിസ്ഥാന വ്യവസ്ഥകൾ പ്രകാരം ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണെന്നോ നമുക്ക് അവകാശപ്പെടാം നമ്മൾ എടുക്കുന്ന അടുത്ത പ്രശ്നത്തിൽ fx y എന്നതിന് xy എന്ന ഗുണനം പോസിറ്റീവ് അല്ലെങ്കിൽ പൂജ്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആകുമ്പോൾ √xy ക്ക് തുല്യമാവും അല്ലാത്തിടങ്ങളിലെല്ലാം അത് പൂജ്യത്തിനു തുല്യമാവും അപ്പോൾ നമുക്ക് ഫംഗ്ഷൻഒറിജിനിൽ ഡിഫറെൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് നിർണയിക്കാം ഏതൊരു ദിശയിൽ നിന്നും x y 00 യിലേക്ക് പോവുമ്പോൾ ഈ ഫംഗ്ഷൻപൂജ്യത്തിലേക്ക് പോകുമെന്ന് കണ്ടെത്തുന്നതിലൂടെ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റി സുഖമായി കണ്ടെത്താം പൂജ്യത്തിലേക്ക് പോവുന്നതിലൂടെ ഫംഗ്ഷൻഒറിജിനിൽ നിർവചനീയം ആണെന്നതും ┤ നമുക്കിവിടെ ഫംഗ്ഷൻറെ കണ്ടിന്യൂയിറ്റിയും ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പുമുണ്ട് അത്പോലെ ഈ നിർവ്വചനം തന്നെ വീണ്ടും ഉപയോഗിക്കാം ഇവിടെ fΔxy0 അതുകൊണ്ടുതന്നെ √xy ലെ ഈ ഗുണനം പൂജ്യം ആകും അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ പൂജ്യം കിട്ടും അതുപോലെ ഈ f00 എന്നതും പൂജ്യമാണ് അപ്പോൾ 0 0 അതായത് 00 പോയന്റിലെ fx പൂജ്യം ആവും അതുപോലെതന്നെ fy00 യും പൂജ്യം ആവും അപ്പോൾ ഈ ഫംഗ്ഷൻകണ്ടിന്യൂസ് ആണ് അതുപോലെ ഇതിന്റെ ഏക വർഗ്ഗ ഡെറിവേറ്റീവ് നിലനിൽക്കുന്നതുമാണ് lim┬xy→00 √xy 0 fxlim┬Δx→0 fΔx 0 f00Δx0 fylim┬Δy→0 f0Δy f00Δy0 ഇനി ഡിഫറെൻഷ്യബിലിറ്റി പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ലിമിറ്റ് കണ്ടെത്തും ഈ ലിമിറ്റിന്റെ മൂല്യം എത്രയാണ് ഈ ലിമിറ്റ് പൂജ്യത്തിലേക്ക് വരുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻറഷ്യബിൾ ആണ് ഇനി നമുക്ക് ഈ ലിമിറ്റ് പൂജ്യമായിട്ടല്ല കിട്ടുന്നതെങ്കിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല അതിനുവേണ്ടി നമുക്ക് dz കണ്ടെത്തണം dz എന്നത് x ന് അനുസൃതമായിട്ട് എടുക്കുന്ന z ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവും y ക്ക് അനുസൃതമായിട്ട് എടുക്കുന്ന z ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവും ആണ് അവ രണ്ടും ഒറിജിനിൽ പൂജ്യമായിരുന്നു അപ്പോൾ നമുക്ക് dz0 എന്ന് കിട്ടും Δz 0Δx0Δy f 00 എന്ന് ലഭിക്കും ഇത് √ΔxΔy എന്നതിന് തുല്യം ആവുകയും ചെയ്യും അതുപോലെ ഇത് മൈനസ് പൂജ്യം ആകും കാരണം ഈ ഗുണനത്തിന്റെ മൂല്യം പൂജ്യം ആണെന്ന് നമ്മൾ സങ്കല്പിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഈ Δ എന്നത് √ΔxΔy എന്ന് ലഭിക്കും ty fxy█√xy xy≥00 elsewhere ┤ ഇനി ഈ കോൺസ്റ്റൻഡ് ഇവിടെ Δz dzΔρ ഇങ്ങനെയായിരിക്കും ഈ Δz എന്നത് √ΔxΔy എന്നതും √Δx2Δy2 എന്നും ആവും ഇവിടെ ഇനി നമ്മൾ Δρ→0 എന്ന ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് നിലനിൽക്കുകയില്ല എന്തെന്നാൽ ഈ Δy Δx ന് തുല്യമായിട്ടെടുത്താൽ ഉദാഹരണത്തിന് ഇവിടെയുള്ളത് പോലെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ Δx ഉം ഉണ്ട് Δx2 ഇവിടെയുമുണ്ട് അപ്പോൾ ഈ Δx2 പദം അപ്രത്യക്ഷമാകും അപ്പോൾ നമുക്ക് 1√2 എന്ന് കിട്ടും dz∂z∂x Δx∂z∂y Δy0 Δzf0Δx 0Δy f0 0√Δx Δy അപ്പോൾ ഈ പാതയിൽ ΔyΔx എന്ന് നമുക്ക് ലഭിക്കും അതുപോലെ Δρ എന്നത് പൂജ്യത്തിലേക്ക് പോകുമെന്ന് നമ്മൾ കണ്ടു ഈ Δz dzΔρ എന്നത് 1√2 ആകുമെന്നും കണ്ടു കാരണം ഇവിടെ നമുക്ക് Δx2 ഇല്ലാതെയാവുമ്പോൾ ഇവിടെ 1 ലഭിക്കും ഇവിടെ 1 ലേക്ക് ഇവിടുത്തെ 1 കൂട്ടുമ്പോൾ ഇവിടെ √2 വരും അപ്പോൾ തീർച്ചയായും ലിമിറ്റ് പൂജ്യത്തിന് തുല്യമായികൂടാ അപ്പോൾ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ലിമിറ്റ് പൂജ്യത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കാണിക്കാം ലിമിറ്റ് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളല്ല എന്നതിനെ തെളിയിക്കുന്നതിന് ഒരു വിഷയമല്ല കാരണം ഡിഫറെൻഷ്യബിലിറ്റിക്ക് ഈ ലിമിറ്റ് പൂജ്യത്തിന് തുല്യമാവണം അതുപോലെ നമ്മൾ കണ്ടത് എന്താണെന്നു വെച്ചാൽ ഈ പ്രത്യേക വഴിയിൽ ലിമിറ്റിന്റെ മൂല്യം 1√2 ആണെന്നതാണ് lim┬Δρ→0⁡〖Δz dzΔρ〗〖lim〗┬Δρ→0⁡〖√Δx Δy√Δx2Δy2 〗 Along the path Δy Δx lim┬Δρ→0⁡〖Δz dzΔρ〗1√2≠0 അതായത് ഈ ലിമിറ്റ് പൂജ്യത്തിന് തുല്യമല്ലാത്തത് കൊണ്ടുതന്നെ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളല്ല ഒറിജിനിലെ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിയെ വീണ്ടും ചർച്ച ചെയ്യുന്ന മറ്റൊരു ഉദാഹരണമാണിത് x≠0 y≠0 എന്ന അവസ്ഥയിൽ ഫംഗ്ഷൻ x52sin⁡1√xy52cos⁡1√y ആണ് മറ്റെല്ലായിടത്തും ഫംഗ്ഷൻ പൂജ്യവുമാണ് ഇവിടെ വീണ്ടും നമുക്ക് കൂടുതൽ എളുപ്പമുള്ള ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിർവചനം തന്നെ ഉപയോഗിക്കാം ഈ പ്രത്യേക രൂപകൽപനയാണ് ഇതിന് കാരണം ഈ ഫംഗ്ഷനെ നമുക്ക് എളുപ്പത്തിൽ ഈ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും കാരണം ഈ Δz എന്നത് 00 എന്ന പോയന്റിൽ fΔx Δy f0 0 എന്നാവും എന്ന് നമുക്ക് കാണാം fxy█x52sin⁡1√xy52cos⁡1√y x≠0y≠00 elsewhere┤ Δza Δxb Δyϵ1 Δxϵ2 Δy ഇതിൽ x നെയും y യെയും Δx കൊണ്ടും Δy കൊണ്ടും പകരം വെക്കാം അപ്പോൾ ഇവിടെ നമുക്ക് x52sin⁡1√xy52cos⁡1√y എന്നും കിട്ടും ഇവിടെ നമുക്കിനി 0Δx0Δy എന്ന ലീനിയർ പദമാക്കി എഴുതാം കാരണം ഇവിടെ നോൺലീനിയർ പദങ്ങൾ ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ 0 തവണ Δx നെയും 0 തവണ Δy യെയും പരിചയപ്പെടുത്തി ഇവിടെ നമുക്ക് ϵ1Δx എന്ന രൂപം ലഭിക്കാൻ വേണ്ടി ഒരു Δx നെ പുറത്തെടുത്തു ഇത് ϵ1 ആവും അതിലേക്ക് നമ്മൾ ഇതു കൂട്ടും ഇവിടെയും നമ്മൾ ഈ Δy പദത്തെ ദൂരേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് Δy52 അതുപോലെ ഇത് വീണ്ടും cos ലുള്ള പദം തന്നെയാവും ഈ cos⁡1√Δy എന്ന പദമാവും ഈ ഒരവസ്ഥയിൽ നമുക്ക് Δy ഇത്തരമൊരു രൂപത്തിൽ പ്രകടിപ്പിക്കാം അവിടെ ഇതാണ് നിങ്ങളുടെ ϵ ഇതിന് Δy→0 ആവുമ്പോൾ Δx പൂജ്യത്തിലേക്ക് പോകുന്ന സ്വഭാവമുണ്ട് ഈ Δx എന്ന പദവും അതിന്റെ പോസിറ്റീവ് പവർ 32 വും കാരണം ഇത് ഒരു അതിരുകളിൽ ഉള്ള ഫങ്ക്ഷനാണ് ഇത് അപ്പോൾ പൂജ്യത്തിലേക്ക് പോകും ഇവിടെയും അതേ വാദം തന്നെ ഉപയോഗിക്കാം ഈ Cos ഫംഗ്ഷൻ വച്ചുള്ളതും പൂജ്യമായിപ്പോവും 0⋅Δx0⋅ΔyΔx 〖Δx32 sin⁡1√Δx Δy 〖Δy32 cos⁡1√Δy അപ്പോൾ ആ അവസ്ഥയിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആണ് എന്തെന്നാൽ a തവണ ഈ ഫങ്ക്ഷനെ നമുക്ക് ഈ രൂപത്തിൽ പ്രകടിപ്പിക്കാം അപ്പോൾ ഇത് ആ ഫംഗ്ഷൻറെ 00 വിലെ x ന് അനുസൃതമായിട്ട് വരുന്ന ഭാഗിക ഡെറിവേറ്റീവും ഇത് 00 വിലെ y ക്ക് അനുസൃതമായിട്ട് വരുന്ന ഭാഗിക ഡെറിവേറ്റീവും ആണ് അതുപോലെ ΔyΔx ഇതാണ് ϵ1 പദം പിന്നെ ഇതിനെ ϵ2 എന്ന പദമായും എഴുതാം ഇവിടെ ഈ ഫംഗ്ഷനെ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്തെന്നാൽ ΔzaΔxbΔyϵ1Δxϵ2Δy എന്നാണ് പിന്നീട് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തെളിയിച്ചു മറ്റൊരു ഉദാഹരണം f xy എന്നത് xy≠0 യിൽ പൂജ്യം ആണെന്നും xy0 യിൽ ഫംഗ്ഷൻ ഒന്ന് ആണെന്നും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് fxy█0 xy≠01 xy0┤ നമുക്ക് ഒറിജിനിലെ fx ന്റെയും fy യുടെയും നിലനിൽപ്പ് പരിശോധിക്കണം അതുപോലെ ഫംഗ്ഷൻ ഒറിജിനിൽ ഡിഫറെൻഷ്യബിൾ ആണോ അല്ലയോ എന്നു കൂടെ അറിയണം fx ന്റെയും fy യുടെയും ഒറിജിനിലെ നിലനിൽപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡെറിവേറ്റീവിന്റെ അടിസ്ഥാന നിർവ്വചനമായി ഈ നിർവ്വചനം ഉപയോഗിക്കാം lim┬Δx→0 fΔx 0 f00Δx എന്നതിൽ fΔx 0 എന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ഗുണനത്തിന്റെ വാദം പൂജ്യം ആകും ഇപ്പോൾ ഇതിന്റെ മൂല്യം വരുന്നത് ഇതിൽ നിന്നാവും ഇത് ഒന്ന് ആണ് അതുപോലെ f00 യും വീണ്ടും ഒന്ന് ആണ് അപ്പോൾ 1 1 എന്നത് പൂജ്യം ആവും അതായത് ആ ലിമിറ്റ് 0 ആവും അതുപോലെ Δy→0 ആകുമ്പോൾ fy യും ഇനി ഇത് Δy→0 ഉം fΔy 0 f00Δy യും ഇവിടെയും ഇത് വീണ്ടും ഒന്ന് ആവും ഇതും ഒന്ന് ആണ് അപ്പോൾ 1 1 വീണ്ടും നമുക്ക് പൂജ്യം കിട്ടും എന്തെന്നാൽ അത് y ക്ക് അനുസൃതമായിട്ടെടുത്ത f ന്റെ ഒറിജിനിലെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് fxlim┬Δx→0 fΔx 0 f00Δx ഇനി നമ്മൾ ഒറിജിനിലെ കണ്ടിന്യൂയിറ്റി ആണ് പരിശോധിക്കുന്നത് അതിനു വേണ്ടി x y→00 എന്നത് x ന്റെ പാതയിൽ ആകുമ്പോൾ എന്താണ് മൂല്യം എന്ന് നമ്മൾ നോക്കുമ്പോൾ അത് y ക്ക് തുല്യമാണെന്ന് ലഭിക്കുന്നു അപ്പോൾ x ന്റെ വഴിയിൽ ഇത് y ക്ക് തുല്യമാണ് ഇവിടെ എന്താണുള്ളത് എന്ന് വെച്ചാൽ x ന്റെ വഴിയിൽ നമുക്ക് y രേഖ ലഭിക്കും ഇനി നമ്മൾ ഈ ഒറിജിനും പോയന്റിനെ സമീപിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ എല്ലാ പോയന്റിലും xy എന്ന ഗുണനം പൂജ്യത്തിന് തുല്യമല്ല ഒറിജിനിലല്ലാത്ത മറ്റേത് പോയന്റിലും ഈ ഗുണനം പൂജ്യത്തിനു തുല്യമല്ല ഇപ്പോൾ ഫംഗ്ഷൻ പൂജ്യം എന്ന മൂല്യം എടുക്കും അപ്പോൾ നമ്മൾ x ന്റെ വഴിയിൽ y രേഖയിലൂടെ 00 യിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫംഗ്ഷൻറെ മൂല്യം പൂജ്യമായി കിട്ടും പൂജ്യത്തിന്റെ എത്ര അടുത്ത ചുറ്റുവട്ടം എടുത്താലും ഈ ഫംഗ്ഷൻറെ മൂല്യം പൂജ്യം ആയിരിക്കും fylim┬Δx→0 f0Δy f00Δy 0 എന്തെന്നാൽ xy≠0 ആവുമ്പോൾ ഫംഗ്ഷൻറെ മൂല്യം 0 ആയിട്ട് നിർണയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രേഖയിലൂടെ നമ്മൾ ഒറിജിനിനെ അനുഗമിക്കുമ്പോൾ ഫംഗ്ഷൻ അതിന്റെ മൂല്യമായിട്ട് പൂജ്യത്തെ എടുക്കുന്നു ഒറിജിനോട് എത്രതന്നെ അടുത്താണ് നമ്മളെങ്കിലും ഫംഗ്ഷൻ പൂജ്യം എന്ന മൂല്യമേ എടുക്കുകയുള്ളൂ ഒറിജിനിൽ മാത്രം അത് ഒന്ന് ആണ് അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് അല്ലാത്ത പോയന്റ് ഉണ്ട് അപ്പോൾ ഈ xy എന്ന വഴിയിലുള്ള ലിമിറ്റിന്റെ മൂല്യം പൂജ്യമാണ് അതേസമയം ഈ ഫംഗ്ഷൻറെ ഒറിജിനിലെ മൂല്യം ഒന്ന് ആണ് ഈ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിളും കണ്ടിന്യുസുമല്ലെന്ന് നമുക്ക് വ്യക്തമായി കാണാം lim┬xy→00 fxy along xy0≠f00 ഇത് 00 യിലെ ഫംഗ്ഷൻറെ മൂല്യത്തോട് തുല്യമല്ല അതുകൊണ്ടുതന്നെ ഈ ഫംഗ്ഷൻ ഒറിജിനിൽ കണ്ടിന്യൂസ് അല്ല ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻഷ്യബിലിറ്റിയെ കുറിച്ച് തീരുമാനിക്കാം ഡിഫറെൻഷ്യബിലിറ്റിയുടെ അവശ്യ വ്യവസ്ഥയാണ് കണ്ടിന്യൂയിറ്റി എന്നുള്ളതു കൊണ്ടുതന്നെ ഫംഗ്ഷൻകണ്ടിന്യൂസ് അല്ലെങ്കിൽ തീർച്ചയായും ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ ആവില്ല ഫംഗ്ഷൻ ഒറിജിനിൽ ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇനി ഡിഫറെൻഷ്യബിലിറ്റിക്ക് വേണ്ടി മറ്റൊരു പരിശോധനക്ക് പോകണമെന്നില്ല കാരണം ഭാഗിക ഡെറിവേറ്റീവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസല്ല ഒരു അവശ്യ വ്യവസ്ഥ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂയിറ്റിയും ഡിഫറെൻഷ്യബിലിറ്റിയുടെ ഒരു അവശ്യ വ്യവസ്ഥയാണ് എന്നുള്ളതിനാൽ അത് ഇവിടെ പൂർത്തീകരിക്കാൻ ഫംഗഷന് സാധിച്ചില്ല അതിനാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് കൂടുതൽ പരിശോധനകൾ ഇല്ലാതെ പറയാം അവസാനത്തെ ഉദാഹരണമെടുക്കാം xy≠00 ആവുമ്പോൾ fxyx2y2|x||y| എന്നും xy00 ആവുമ്പോൾ ഫംഗ്ഷൻറെ മൂല്യം പൂജ്യവും ആണ് ഇവിടെ ഇതൊരു പിശകാണ് ഇവിടെ ഇത് 00 എന്നാണ് ഫംഗ്ഷൻ ഒറിജിനിൽ ഡിഫറെൻഷ്യബിൾ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിന്റെ കണ്ടിന്യൂയിറ്റി പരിശോധന പല വഴിയെ ചെയ്യാം ഇതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് ϵΔ സമീപനം ഉപയോഗിച്ചും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാം fxy█x2y2|x||y| xy≠000 xy00┤ ഇവിടെ നമുക്ക് ϵΔ സമീപനം എടുക്കാം xy≠00 ആകുമ്പോൾ നമ്മൾ fxy f00 എന്ന വ്യത്യാസം എടുക്കാം f00 എന്നത് പൂജ്യം ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് fx y യുടെ ലിമിറ്റ് 0 ആണോ അല്ലയോ എന്ന് കാണിക്കണം ഈ വ്യത്യാസം എടുത്ത ശേഷം ഇതിനെ Δ യിലും ϵ ണിലും പ്രകടമാക്കണം അതായത് ഇവിടെ x2y2|x||y| എന്നാവും |fxy 0|x2y2|x||y| ശേഷം നമുക്കിവിടെ രണ്ടുതവണ |x||y| യെ കൂട്ടാം അതിലൂടെ ഇതിനെ സ്ക്വയർ ആക്കാം അപ്പോൾ നമ്മൾ നുമേറേറ്ററിൽ കൂട്ടുമ്പോൾ ആ സംഖ്യ വലുതാവും അപ്പോൾ നമുക്ക് ഈ വലിയ സംഖ്യ രണ്ടുതവണ |x||y| എടുത്ത മൂല്യത്തെ കൂട്ടുകയും ചെയ്തപ്പോൾ കിട്ടിയ ഹോൾ സ്ക്വയർ സംഖ്യ ആകും അപ്പോൾ ഇവിടെ ഈ പദം ഹോൾ സ്ക്വയർ ആവുകയും ഇതും തുല്യപദം ആവുകയും ചെയ്താൽ ഒരെണ്ണം ഇല്ലാതെയായി പോകും അപ്പോൾ നമുക്ക് |x||y| എന്ന് മാത്രം ഉണ്ടാവും മുൻപത്തെ ഒരു ലക്ചറിൽ ഇത് ഇവിടെ √2 എന്നതിനേക്കാളും ചെറുതാവും എന്ന് നമ്മൾ കണ്ടിരുന്നു √x2y2 നെ നമ്മൾ വീണ്ടും 00 എന്ന പോയിന്റിന്റെ δ ചുറ്റുവട്ടത്തിലേക്ക് മാറ്റിയിരുന്നു അപ്പോൾ ഇത് √2 വിനെക്കാൾ ചെറുതാണ് കൂടാതെ δ യുടെ പദങ്ങളിൽ എല്ലാം നമുക്ക് ഒരു വസ്തുനിഷ്ടമായ സംഖ്യയായ ϵ നേക്കാൾ ചെറുതാക്കുകയും വേണം |x||y|2|x||y| |x||y|√2 √x2y2 √2 δϵ അപ്പോൾ ഈ ബന്ധം വച്ച് ഈ തന്നിരിക്കുന്ന ϵ വെച്ച് നമുക്ക് ഈ δ യെ സ്ഥിരപ്പെടുത്താം അപ്പോൾ ഈ fx y f00 എന്നത് ϵ നേക്കാൾ ചെറുതാണ് അപ്പോൾ ഈ δ യെ ϵ√2 വിനെക്കാൾ ചെറുതായി തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് ഈ δ യെ കിട്ടുന്നു അപ്പോൾ ഈ വ്യത്യാസം ϵ നേക്കാൾ ചെറുതാവുന്നു അതുതന്നെയാണ് കണ്ടിന്യൂയിറ്റി തെളിയിക്കാനുള്ള ϵ δ സമീപനവും അപ്പോൾ നമ്മൾ ഈ δ യെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വ്യത്യാസം ϵ നേക്കാൾ ചെറുതാവും എന്ന് നമ്മൾ കാണിച്ചു അതുപോലെ ഏതെങ്കിലും x y പോയന്റ് ഈ ചുറ്റുവട്ടത്തിൽ നിന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കുന്നു അടുത്തതായി നമ്മൾ ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിയെ കാണിക്കാം ϵ√2|fxy f0 0|ϵ whenever 0√x2y2 δ നിർവചനം പ്രകാരം വീണ്ടും നമ്മൾ ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പിനെ കാണിക്കും നമുക്കിവിടെ fΔx 0 f00Δx എന്നുണ്ട് അപ്പോൾ ഈ പദം എന്താണ് ഇവിടെ ഈ y പൂജ്യം ആയിട്ട് സ്ഥിരപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് Δx2|Δx|Δx എന്ന് ലഭിക്കും അപ്പോൾ ഇത് ഈ പദമാവും ഈ Δx ഇല്ലാതെയായി പോവും അപ്പോൾ നമുക്ക് ΔxIΔxI എന്ന് ലഭിക്കും അപ്പോൾ വലതു ഭാഗത്തു നിന്നും ഈ Δx പൂജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒന്ന് ആവും ഇനി അത് ഇടത്തുനിന്നും പൂജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ മൂല്യം 1 ആവും അപ്പോൾ ഇതിന് ഒന്നുകിൽ പോസിറ്റീവ് ഭാഗത്തുനിന്ന് Δx പൂജ്യത്തെ അനുഗമിക്കുമ്പോൾ പോസിറ്റീവ് ഒന്ന് എന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ഭാഗത്തുനിന്ന് Δx പൂജ്യത്തെ അനുഗമിക്കുമ്പോൾ 1 എന്നും ലഭിക്കുന്നതുകൊണ്ട് ഈ ലിമിറ്റ് നിലനിൽക്കുകയില്ല lim┬Δx→0 fΔx 0 f00Δx〖lim〗┬Δx→0 Δx2|Δx|Δx〖lim〗┬Δx→0 Δx|Δx| അപ്പോൾ ഇവിടെ ലിമിറ്റ് നിലനിൽക്കുന്നില്ല ഇവിടെ നമ്മൾ fx ന്റെ മുകളിൽ ഉള്ള ഒരു ഡെറിവേറ്റീവ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഫംഗ്ഷൻറെ സ്വഭാവം അനുരൂപ്യമായത് കൊണ്ട് തന്നെ xy എന്നതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് fy00 എന്നതും നിലനിൽക്കുന്നില്ലെന്ന് നമുക്ക് തെളിയിക്കാം ഈ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല എന്ന് പറയാൻ ഏതെങ്കിലുമൊരു ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പ് കാണിച്ചാൽ മതിയാകും കാരണം ഡിഫറെൻഷ്യബിലിറ്റിയുടെ അവശ്യ വ്യവസ്ഥ എന്തെന്നാൽ ഈ ഭാഗിക ഡെറിവേറ്റീവുകളുടെയും നിലനിൽപ്പാണ് അപ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ fx നിലനിൽക്കുന്നില്ലെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ലാ എന്ന് നമുക്ക് പറയാം എന്നിരുന്നാലും ഇവിടുത്തെ അവസ്ഥയിൽ ഇരു ഡെറിവേറ്റീവുകളും നിലനിൽക്കുന്നില്ല അതു കൊണ്ടുതന്നെ ഫംഗ്ഷൻ ഡിഫറെൻഷ്യബിൾ അല്ല ഇനി അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഡിഫറെൻഷ്യബിലിറ്റിയുടെ അന്വേഷണത്തിന് വേണ്ടി നമുക്ക് ഈ അവശ്യ വ്യവസ്ഥകൾ ഉപയോഗിക്കാം എന്തെന്നാൽ കണ്ടിന്യൂയിറ്റിയും ഭാഗിക ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പും ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാൽ ഫംഗ്ഷൻ ഡിഫറെൻറഷ്യബിൾ അല്ല എന്ന് നമുക്ക് തെളിയിക്കാം അല്ലെങ്കിൽ പര്യാപ്തമായ വ്യവസ്ഥകളെ വെച്ച് നമുക്ക് ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റി ചർച്ച ചെയ്യാം അപ്പോൾ ഒരു ഭാഗിക ഏക വർഗ്ഗ ഡെറിവേറ്റീവിന്റെ കണ്ടിന്യൂയിറ്റി മതിയാകും ഫംഗ്ഷൻറെ ഡിഫറെൻഷ്യബിലിറ്റിക്ക് വേണ്ടി ഇനി അവസാനമായി ഫംഗ്ഷൻ അവശ്യ വ്യവസ്ഥകൾ സാധൂകരിക്കുകയും പര്യാപ്തമായ വ്യവസ്ഥകൾ സാധൂകരിക്കുന്നില്ല എന്നുമാണെങ്കിൽ ഉദാഹരണത്തിന് ഭാഗിക ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അവസാന പരിശോധനയ്ക്ക് പോകണം ഒരാൾക്ക് കൂടുതൽ എളുപ്പമുള്ള ലിമിറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാം ഇവിടെ ലിമിറ്റ് ഒന്നുകിൽ പൂജ്യമാണ് അല്ലെങ്കിൽ പൂജ്യത്തിന് തുല്യമല്ല എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഡിഫറെൻഷ്യബിലിറ്റിയുടെ നിർവചനവും ഇവിടെ ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാമാണ് ഈ ലക്ച്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച റഫറൻസുകൾ